മനുഷ്യ വികാരങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചു ഇത് ഞങ്ങളുടെ അവസാന പ്രഭാഷണമായിരിക്കും അതിനാൽ ഞങ്ങളുടെ ശ്രദ്ധ രണ്ട് കാര്യങ്ങളിലായിരിക്കും നമ്മൾ ഇപ്പോൾ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട് പെരുമാറ്റം സംസ്കാരം നമ്മൾ ഇതുവരെ തലച്ചോറിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതിനാൽ ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് വൈകാരിക പ്രതികരണത്തിന്റെ ജൈവശാസ്ത്രപരമായ വശംരണ്ട് മനുഷ്യ വികാരങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കും ഓരോ അടിസ്ഥാന വികാരവും ഒരു പരിധിവരെ ശാരീരിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഹൃദയമിടിപ്പ് കോപംദേഷ്യം വരുമ്പോൾ രക്തയോട്ടം വർദ്ധിക്കുംശരി എന്നാൽ കോപം വരുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതിന്റെയും രക്തയോട്ടം വർദ്ധിക്കുന്നതിന്റെയും അനന്തരഫലമായി ആനുപാതികമല്ലാത്ത ഉയർന്ന അളവിലുള്ള രക്തം കൈകളിലേക്ക് പോകുന്നു അതിനാൽ ഞാൻ വളരെ അധികം ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്റെ ഹൃദയമിടിപ്പ്രക്തയോട്ടം എന്നിവ വർദ്ധിക്കുന്നു തുടർന്ന് ഉയർന്ന രക്തയോട്ടം ആനുപാതികമായി വർദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇതിനു അടിസ്ഥാനപരമായി ജൈവശാസ്ത്രപരമായ പ്രാധാന്യവും അതിജീവന പ്രാധാന്യവുമുണ്ട് നിങ്ങളുടെ കയ്യിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുമ്പോൾ ബാഹ്യ ഭീഷണിക്കെതിരെ പോരാടാൻ അത് നിങ്ങളെ സജ്ജമാക്കുന്നു നിങ്ങൾ കോപിക്കുന്നു നിങ്ങൾ കോപിക്കുമ്പോൾ കോപത്തിന്റെ ഉറവിടത്തിലേക്ക് നീങ്ങാൻ ഈ അവസ്ഥ നിങ്ങളെ പ്രേരിപ്പിക്കും കോപത്തിന്റെ ഉറവിടം മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കും എങ്ങനെ എന്നാൽ നിങ്ങൾ ജൈവശാസ്ത്രപരമായി തയ്യാറായിരിക്കണം അല്ലാത്തപക്ഷം നിങ്ങളുടെ നിലനിൽപ്പുമായി നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം കോപത്തിന്റെ അവസ്ഥയിൽ രക്തപ്രവാഹവും ഹൃദയമിടിപ്പും വർദ്ധിക്കുന്നു എന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ യഥാർത്ഥ ജീവിതാനുഭവം ഉപയോഗിച്ച് നിങ്ങൾ ഈ വാദം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വന്നാലും കോപത്തിന്റെ ഉറവിടത്തിലേക്ക് നിങ്ങൾ മടങ്ങി പോകില്ല ഓരോ തവണയും നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ കലഹിക്കുന്നില്ല എങ്കിൽ അതുപോലെ തന്നെ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും സാധാരണ ഗതിയിൽ ആകുന്നു നിങ്ങൾ കലഹിക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും വർദ്ധിക്കും നിങ്ങൾ കലഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത് വർധിക്കുകയില്ല വികാരങ്ങളുടെ ബയോകെമിക്കൽ റെഗുലേഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ദേഷ്യം വരുമ്പോൾ കലഹിച്ചാലും ഇല്ലെങ്കിലും ഹൃദയമിടിപ്പ് സ്ഥിരസ്ഥിതിയായി വർദ്ധിക്കുമെന്നാണ് സ്ഥിരമായി രക്തയോട്ടവും വർദ്ധിക്കും ഈ രക്തയോട്ടംഹൃദയമിടിപ്പ് എന്നിവയുടെ വർദ്ധനവ് രണ്ട് കൈകളിലേക്കും വ്യാപിക്കുകയും നിങ്ങൾ കലഹത്തിന് തയ്യാറാകുകയും ചെയ്യും ഇതൊരു രസകരമായ സംവിധാനമാണ് അവസാനം നമ്മൾ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഈ സ്ലൈഡിലേക്ക് നോക്കാംനമ്മൾ സാമൂഹിക ജീവികളായ മനുഷ്യരാണെന്ന് ഞങ്ങൾക്കറിയാം സാമൂഹിക സൃഷ്ടികളാണ് അതിനാൽ നിങ്ങൾ യഥാർത്ഥ പോരാട്ടത്തിൽ ഏർപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ തന്നെ വികാരത്തിന്റെ അവസ്ഥ നിങ്ങളുടെ ശരീരത്തെ സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നു ഹൃദയമിടിപ്പ് വർദ്ധിക്കും സ്ഥിരമായി രക്തയോട്ടം വർദ്ധിക്കും പക്ഷേ അവിടെ സോഷ്യൽ മോഡറേറ്റർ പ്രവർത്തിക്കുന്നു ആ സോഷ്യൽ മോഡറേറ്റർ കുഴപ്പമില്ലകലഹിക്കാണോ വേണ്ടയോ എന്ന് നിങ്ങളോട് പറയുന്നു അതിനർത്ഥം നിങ്ങൾ ഒരു പ്രവൃത്തിക്ക് ജൈവശാസ്ത്രപരമായി തയ്യാറാണെങ്കിലും സാമൂഹികമായി നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളെ നിയന്ത്രിക്കുന്നു നിഷ്പക്ഷഉത്തേജകങ്ങളുമായോമറ്റേതെങ്കിലും ഉത്തേജകങ്ങളുമായോ താരതമ്യപ്പെടുത്തുമ്പോൾ ഭീഷണി ഉത്തേജകങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള സ്വതവേയുള്ള പ്രവണത നമ്മിൽ ഉണ്ട് ഭീഷണിക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ട് എന്റെ മുന്നിൽ നിൽക്കുന്ന കോപാകുലനായ ഒരു സൃഷ്ടിയെ വ്യക്ത്തിയെ നോക്കിയാൽ ഞാൻ വളരെയധികം ഭയം അത് എന്നിൽ വളർത്തുന്നു ഈ ഭീഷണി യഥാർത്ഥത്തിൽ അതിജീവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്റെ മുന്നിലുള്ള വസ്തുജീവിക്ക് എന്നോടുള്ളതും എന്നോട് പ്രതിഫലിപ്പിക്കുന്നതുമായ ദേഷ്യം എന്റെ ആരോഗ്യകരമായ അതിജീവനത്തിൽ നിന്ന് എന്നെ തടയുന്നുവെന്ന് മനിസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് ഭയത്തിനു പ്രേരകമായ അവസ്ഥ വളരെ വേഗത്തിൽ തലച്ചോറിലേക്ക് പ്രചരിപ്പിക്കുകയും മുൻഗണനാടിസ്ഥാനത്തിൽ മസ്തിഷ്കം അത് പ്രക്രിയ ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ മറ്റേതൊരു വികാരവുമായി താരതമ്യപ്പെടുത്തുമ്പോഴും ഒരു പ്രതേക സാഹചര്യത്തിൽ ഉണ്ടാകുന്ന വികാരം പ്രാധാന്യം അനുസരിച്ചു മസ്തിഷ്കം മുൻഗണന നൽകുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുന്നത് നിങ്ങൾ പരസ്പരം തമാശകൾ പറയുന്നു നിങ്ങൾ സായാഹ്നം ആസ്വദിക്കുന്നു പെട്ടെന്ന് നിങ്ങൾ പുൽത്തകിടിയിൽ ഒരു പാമ്പിനെ കാണുന്നു ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ആ ജീവി നിങ്ങളുടെ മറ്റു പരിസ്ഥിതിക്കാളും ഭയത്തിനു പ്രാധാന്യം നൽകുന്നു തമാശ നോക്കൂ ഇപ്പോൾ നിങ്ങൾ തമാശയും സുഹൃത്തുക്കളോടൊപ്പമുള്ള സായാഹ്നവും പാമ്പിനോടുള്ള ഭയത്തിനു വഴി മാറുന്നു ശരി ഇത് ഇപ്പോൾ വൈകാരിക പ്രകടനങ്ങളുടെ കാര്യത്തിൽ ഒരു രസകരമായ സംവിധാനമാണ് വൈകാരിക ആവിഷ്കാരങ്ങളും അതിജീവന പ്രാധാന്യവും സൂചിപ്പിക്കുന്നത് അത്തരം ഉത്തേജനങ്ങൾക്ക് ശ്രദ്ധ മുൻഗണന ഉണ്ടെന്നും അതിനാൽ പാമ്പുകൾ കോപാകുലരായ മനുഷ്യർ തുടങ്ങിയ ഉരഗങ്ങൾ ശരിയാണെന്നും അത്തരം എല്ലാ കാര്യങ്ങൾക്കും എല്ലായ്പ്പോഴും തലച്ചോറിന്റെ പ്രോസസ്സിംഗ് മുൻഗണന ലഭിക്കും ചിലതരം വികാരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന്റെ ജൈവശാസ്ത്രപരമായ പ്രാധാന്യംഅവയുടെ പ്രക്രിയാപരമായ പ്രത്യേകതകൾ എന്നിവ നോക്കാം ന്യൂറോ കെമിക്കൽ ബെഞ്ച്മാർക്ക് ഒന്നാം നമ്പർ ബയോകെമിക്കൽ റെഗുലേഷൻ പോയിന്റ് ഓർമ്മിക്കുക ശരി ന്യൂറോ കെമിസ്ട്രി ഇന്ദ്രിശ്ചാലക മാറ്റങ്ങളും മറ്റു രണ്ട് വ്യവഹാര ഘടകങ്ങളായ പ്രചോദനവും വൈജ്ഞാനിക ഘടകങ്ങളും അവയെ നിർണ്ണയിക്കുന്ന സജീവ പ്രക്രിയാ പങ്കാളിയെ നിരീക്ഷിച്ച്അവയുടെ വർദ്ധനവ് വ്യതിയാനം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ എന്നിവ താരതമ്യം ചെയ്യുക ഉത്തേജകനില കുറയുകയാണെങ്കിൽ ഉത്തേജനത്തിൽ പെട്ടെന്ന് വർദ്ധനവ് ഉണ്ടായാൽ അത് പോസിറ്റീവ് നെഗറ്റീവ് എന്നിവയിൽ ഏതു തരത്തിലുള്ള വൈകാരികാവസ്ഥയിലേക്ക് നയിക്കുന്നു ഉദാഹരണത്തിന് താൽപ്പര്യം സന്തോഷം എന്നിവ പോസിറ്റീവ് വികാരം ആണ് ഭയം ഒരു നെഗറ്റീവ് വികാരം ആണ് എന്നാൽ ഉത്തേജനത്തിന്റെ പെട്ടെന്നുള്ള വർദ്ധനവ് അവയിലേതെങ്കിലും ഒന്നിലേക്ക് നയിച്ചേക്കാം നിങ്ങളുടെ താൽപ്പര്യം സന്തോഷംഭയം എന്നീ വൈകാരികാവസ്ഥകൾ ഉത്തേജനത്തിലെ പെട്ടെന്നുള്ള വർദ്ധനവിനെ ആശ്രയിച്ചിരിക്കുന്നു സ്ഥിരമായ അവസ്ഥകൾ പോസിറ്റീവ് വികാരങ്ങളിലേക്ക് നയിക്കുന്നു ഇതിൽ രസകരമായ ഒരു കാര്യമുണ്ട് പെട്ടെന്നുള്ള വർദ്ധനവ് പോസിറ്റീവ് ആകാം പെട്ടെന്നുള്ള കുറവ് നെഗറ്റീവ് ആകാം സ്ഥിരമായ അവസ്ഥകൾ പോസിറ്റീവ് വികാരങ്ങൾ മാത്രമായിരിക്കണം ഉത്തേജക നിലയുടെ സ്ഥിരത നിലനിർത്തുകയാണെങ്കിൽ ശരി മുമ്പത്തെ ഉദാഹരണത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് പെട്ടെന്നുള്ള വർദ്ധനവ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള കുറവിനെ കുറിച്ചാണ് ഉത്തേജനത്തിന്റെ സ്ഥിരമായ താഴ്ന്ന നിലയുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ സ്ഥിരമായ നിലയെക്കുറിച്ച് സംസാരിക്കുന്നു ഉയർന്ന തോതിലുള്ള ഉത്തേജനം ഉണ്ടെങ്കിൽ മാത്രമേ നെഗറ്റീവ് വികാരങ്ങളെ സജീവമാക്കൂ അല്ലാത്തപ്പോൾ അത് നെഗറ്റീവ് വികാരങ്ങൾ ജനിപ്പിക്കില്ല ശരി രസകരമായ കാര്യം നിങ്ങൾ ഇവിടെ കാണുന്നത്ഒരു താഴ്ന്ന നിലയിലുള്ള ഉത്തേജനവും ഉയർന്ന തോതിലുള്ള ഉത്തേജനവും രണ്ട് സാഹചര്യങ്ങളിലും നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉദാഹരണത്തിന് സമ്മർദ്ദവറും കോപവും പോലുള്ള നെഗറ്റീവ് വികാരങ്ങൾ എടുക്കുകയാണെങ്കിൽ അവ നിങ്ങളിൽ സങ്കടം സജീവമാക്കുമെന്ന് പറയാം ഇതിന് ഉയർന്ന തോതിലുള്ള ഉത്തേജനം ഉണ്ടെങ്കിലും അത് സ്വഭാവത്തിൽ നെഗറ്റീവ് ആണ് താഴ്ന്നതും ഉയർന്നതുമായ ഉത്തേജനം സ്ഥിരമായ നെഗറ്റീവ് വികാരമുണ്ടാക്കും എന്നാൽ നിങ്ങൾക്ക് മിതമായ ഉയർന്ന ഉത്തേജനം ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് വൈകാരിക അവസ്ഥയിലേക്ക് നയിക്കുന്നു ഉദാഹരണത്തിന് സന്തോഷം ഉദാഹരണത്തിന് സന്തോഷം അടിസ്ഥാനപരമായി ഉയർന്ന ഉത്തേജനമാണ്ഇത് ഒരു രസകരമായ പാറ്റേൺ ആണ് മുമ്പത്തെ സ്ലൈഡിൽ ഞങ്ങൾ കണ്ടത് എന്താണെന്ന് ഓർമ്മിക്കുക നെഗറ്റീവ് വൈകാരങ്ങളുടെ ഉത്തേജനത്തിൽ പെട്ടെന്നു കുറവുണ്ടായാൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വികാരത്തെക്കുറിച്ചു ചിന്തിക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഉത്തേജനത്തിന്റെ തോത് മിതമായതാണെങ്കിൽ ഞങ്ങൾക്ക് താഴ്ന്നതോ ഉയർന്നതോ ആയ നിലയില്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ഇമോഷൻ അനുഭവപ്പെടും നിങ്ങൾക്ക് നെഗറ്റീവ് ഇമോഷൻ അനുഭവപ്പെടില്ല പക്ഷേ ഉയർന്നതോ താഴ്ന്നതോ ആയ ഉത്തേജനം മാത്രം നിലനിൽക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് വൈകാരിക അവസ്ഥയിലേക്ക് നയിക്കുന്നു ഇനി വികാരത്തിന്റെ അനുഭവം തലച്ചോറിന്റെ സജീവമാക്കൽ നാഡീവ്യവസ്ഥയുടെ സജീവ പ്രവർത്തനങ്ങൾ എന്നിവ ബയോകെമിക്കൽ റെഗുലേഷന്റെ അടിസ്ഥാനത്തിൽ ആണ് നടക്കുന്നത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഹൃദയമിടിപ്പ് രക്തയോട്ടം എന്നിവ വർദ്ധിക്കുന്നു ഇവയിലൂടെ സ്വയം പ്രവൃത്തിക്കുന്ന നാഡീവ്യവസ്ഥയുടെമാറ്റങ്ങൾ അറിയുന്നു സാധാരണയായി നമ്മുടെ ദൈനംദിന അനുഭവത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാൻ കഴിയുന്നു പ്രത്യേക വികാരങ്ങൾ ഉളവാക്കാത്ത ഇന്ദ്രിയാനുഭവ വിവരങ്ങൾ നമ്മളിൽ ഉണ്ട് ശരി ആദ്യ പ്രഭാഷണത്തിൽ തലച്ചോറിൽ എങ്ങനെയാണ് സംവേദനം നടക്കുന്നതെന്ന് സംസാരിച്ചതായി ഓർക്കുന്നുധാരണത്തിൽ ആരംഭിച്ചു വികാരത്തെ ഉളവാക്കുന്ന ഇന്ദ്രിയാവ്യാപാരങ്ങൾ രണ്ടു വിധം ഉണ്ട് സ്വയം പ്രവർത്തന ക്ഷമതയുള്ള നാഡീവ്യവസ്ഥയെ സജീവമാക്കുന്നതിൽ തലച്ചോറിലെ തലാമസ് അമിഗ്ഡാല ഹൈപ്പോകാമ്പസ് എന്നിവയുടെ പ്രവർത്തനം ഉൾപ്പെടുന്നു രണ്ടാമതായിഇന്ദ്രിയങ്ങളിലൂടെ നേടിയ വിവരങ്ങൾ ഉയർന്ന കോർട്ടിക്കൽ ഏരിയകളിലേക്ക് പോകുന്നു ഇത് വളരെ മന്ദഗതിയിലുള്ള പ്രക്രിയയാണ് വികാരത്തിന്റെ വിലയിരുത്തലാലാണ് ഇവിടെ നടക്കുന്നത് അതിനർത്ഥം രണ്ട് സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുന്നു ഒന്ന് അടിസ്ഥാനപരമായി വളരെ വേഗത്തിൽ നീങ്ങുന്നു ഒന്ന് അറിയാവുന്നത് ഇവിടെ ചുവപ്പ് നിറത്തിലാണ് നൽകിയിരിക്കുന്നത് തലാമസ് അമിഗ്ഡാല ഹൈപ്പോതലാമസ് എന്നിവയിലൂടെ മലദ്വാരം വരെ സജീവമാകുന്നു എന്ന് മനസ്സിലാക്കാം ഇത് വളരെ വേഗതയുള്ള ഒരു സംവിധാനമാണ് മന്ദഗതിയിലുള്ള പ്രകിയകൾ വികാരത്തിന്റെ വിലയിരുത്തലിനായി നിങ്ങളെ അനുവദിക്കുന്നുതുടർന്ന് അൽപ്പസമയത്തിനു ശേഷം വിലയിരുത്തലിനെ കുറിച്ച് മനസ്സിലാക്കുന്നു ശരി ഈ പ്രവർത്തനത്തിൽ ഉയർന്ന കോർട്ടിക്കൽ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം വിലയിരുത്തൽ നടത്തുക എന്നത് മന്ദഗതിയിലുള്ള പ്രക്രിയയാണ് സ്വയം പ്രവത്തനക്ഷമമായ നാഡീവ്യൂഹം പ്രവർത്തനക്ഷമമാകുമ്പോൾ ഇത് നമ്മുടെ വ്യവഹാരങ്ങളെ അഥവാ പെരുമാറ്റത്തെ ബാധിക്കും അഡ്രീനൽ ഗ്രന്ഥി പ്രവൃത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എപ്പിനെഫ്രിൻനോർ എപ്പിനെഫ്രിൻ Epinephrine Nor epinephrine എന്നീ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ എപ്പി നെഫ്രിൻ ഉത്പാദിപ്പിക്കുമ്പോൾ അവ വ്യത്യസ്ത വൈകാരികാവസ്ഥകൾ സംജാതമാകുന്നു ശരി ഉദാഹരണത്തിന് നിങ്ങൾക്ക് തലച്ചോറിൽ വ്യത്യസ്ത മാനങ്ങൾ ഉള്ള വ്യത്യസ്ത വികാരങ്ങളുണ്ട് എന്നിരിക്കട്ടെ മലദ്വാരപ്രവർത്തനത്തിന്റെ തലത്തിൽ പോലും ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെപ്രവർത്തനങ്ങൾ വ്യതിയാനം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന അവയെ മന്ദഗതിയിലാക്കുന്ന രണ്ടാമത്തെ ചാനലിനെ ഈ അവസരത്തിൽ ഓർക്കുക വൈകാരിക സംവേദനങ്ങൾ ഉയർന്ന കോർട്ടിക്കൽ ഏരിയ പ്രോസസ്സ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന്റെ വിലയിരുത്തൽ പ്രക്രിയയുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു അത് വികാരങ്ങളെ പ്രധാനമായും രണ്ട് വീക്ഷണകോണുകളിൽ നിന്ന് നോക്കുന്നു ലക്ഷ്യത്തിനു എത്രമാത്രം യോജിക്കുന്നു അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നില്ല എന്നീ രണ്ടു വിധത്തിൽ അതിനാൽ നിങ്ങൾക്ക് വികാരങ്ങളെ ലക്ഷ്യപരമായ വികാരങ്ങൾ എന്നും ലക്ഷ്യവുമായി പൊരുത്തമില്ലാത്ത വികാരങ്ങൾ എന്നും അടിസ്ഥാനപരമായി വിഭജിക്കാൻ സാധിക്കുംതലച്ചോറിന് ലഭിച്ച ലക്ഷ്യ വുമായി പൊരുത്തപ്പെടുന്ന വികാരങ്ങളിൽ സന്തോഷം സ്നേഹം അഹങ്കാരം എന്നിവ ഉൾപ്പെടും സങ്കടം ഉത്കണ്ഠ ലജ്ജ കുറ്റബോധം അസൂയ വെറുപ്പ് തുടങ്ങിയ വികാരങ്ങളെല്ലാം ലക്ഷ്യത്തിന്റെ ഭാഗമായിത്തീരുന്നു ഇപ്പോൾ എന്ത് സംഭവിക്കും പ്രാഥമികമായി അവർക്കറിയാവുന്ന പൊരുത്തപ്പെടുന്ന വികാരവും ലക്ഷ്യവുമായി പൊരുത്തമില്ലാത്ത വികാരങ്ങളും രണ്ട് വീക്ഷണ കോണുകളിൽ നിന്ന് നോക്കിക്കാണാം പ്രാഥമികവിലയിരുത്തൽ സംവിധാനവും ദ്വിതീയ വിലയിരുത്തൽ സംവിധാനവും അവയിൽ തന്നെ പ്രധാനം പ്രാഥമികവിലയിരുത്തൽ സംവിധാനമാണ് പ്രാഥമിക വിലയിരുത്തലുകൾ ലക്ഷ്യത്തിന്റെ പ്രസക്തി സാദ്ധ്യത അഹത്തിന്റെ ഇടപെടലുകൾ എന്നിവ പരിശോധിക്കുന്നു ശരി ഇവ മൂന്ന് മാനദണ്ഡങ്ങൾ മാത്രമാണ് കുറ്റപ്പെടുത്തേണ്ട വ്യക്തി കുറ്റപ്പെടുത്തേണ്ട ഭാഗം അല്ലെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ ആരുടെ ഭാഗത്തിനാണ് മുൻതൂക്കവും പരിഗണനയും നൽകേണ്ടത് എന്ന് ദ്വിതീയ മൂല്യനിർണ്ണയ സംവിധാനത്തിലൂടെ ഈ രണ്ട് കാര്യങ്ങളെ മാത്രം വിലയിരുത്തുന്നു അഭിമുഖീകരിക്കുന്നതിനുള്ള സാധ്യതയും ദ്വിതീയ വിലയിരുത്തലും ഭാവി പ്രതീക്ഷകൾ നൽകുന്നു ആദ്യം നമുക്ക് പ്രാഥമിക വിലയിരുത്തലിലേക്ക് വരാം ശരി ലക്ഷ്യത്തിന്റെ പ്രസക്തി എന്നതിനർത്ഥം നിങ്ങൾ നിങ്ങൾക്കായി ഒരു ലക്ഷ്യം നിർണ്ണയിച്ചു വച്ചിട്ടുണ്ട് എന്നാണ് മുൻപ് ഒരു പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ലക്ഷ്യത്തിലെത്തിച്ചേരൽ ആണ് അല്ലെങ്കിൽ ലക്ഷ്യം നേടുന്ന പ്രക്രിയയിൽ നിന്നും തടയുന്ന ഘടകങ്ങൾ കാര്യങ്ങൾ ഒരുക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ അഹം ഈ പ്രക്രിയയിൽ പങ്കാളിയാണെന്ന് കരുതുക ശരി പ്രസക്തമായ ലക്ഷ്യമാണ്അഭിമാനത്തെ സംബന്ധിക്കുന്നതാണ് എന്നൊക്കെ നിങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഈഗോ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഈഗോ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമായി ഈ സന്ദർഭത്തെ നിങ്ങൾ കരുതുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയം അതിനാൽ നിങ്ങൾക്കു ഇപ്പോൾ ഇത് മനസിലായി കാണും ലക്ഷ്യ പ്രസക്തി ലക്ഷ്യ സാമാന്യത ഈഗോയുടെ പങ്കാളിത്തത്തിന്റെ അളവ്ഈ മൂന്ന് ഫിൽട്ടറുകൾ മാത്രമേ പ്രാഥമിക വിലയിരുത്തൽ പ്രക്രിയയിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് നമ്മുടെ മിക്ക വികാരങ്ങളും അവയുടെ പ്രസക്തിയും അനുഭവങ്ങളും വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ എളുപ്പത്തിൽ തിരിച്ചറിയാനും നിർവചിക്കാനും കഴിയുന്നു ചില സന്ദർഭങ്ങളിൽ ദ്വിതീയ വിലയിരുത്തൽ സംവിധാനം ആവശ്യമായി വരുന്നു അവിടെ നാം ഒരു വ്യക്തിയെ തിരയുന്നു ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആരാണ് ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ആരാണ് ഉത്തരവാദിത്വം വഹിക്കേണ്ടത് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നിങ്ങനെ കാരണം എന്തെങ്കിലും നാം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയെടുത്തതാണ് അതിന്റെ ക്രെഡിറ്റ് എനിക്കാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നു കുറ്റപ്പെടുത്തലും അഭിമാനപ്രശ്നവും കൂടാതെ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം നേരിടാനുള്ള സാധ്യതയാണ് ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽഎനിക്ക് അതിനെ നേരിടാൻ കഴിയുമോ ഈ നഷ്ടം എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ ഉത്തരം അതെ അല്ലെങ്കിൽ ഇല്ല എന്ത് തന്നെ ആയാലും ആ അറിവ് മേൽ സന്ദർഭത്തെ സാഹചര്യങ്ങളെ നേരിടാൻ എത്രത്തോളം പ്രാപ്തരാണെന്ന് തിരിച്ചറിയുന്നു ഈ സാഹചര്യം ദ്വിതീയ മൂല്യനിർണ്ണയത്തിനുള്ള ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നു ദ്വിതീയ മൂല്യനിർണ്ണയ സംവിധാനത്തിനുള്ള രണ്ടാമത്തെ പ്രധാന ഫിൽട്ടർ ഭാവി പ്രതീക്ഷയാണ് സമീപ ഭാവിയിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞാൻ സമാന സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ ആ സന്ദർഭം എനിക്ക്കൈകാര്യം ചെയ്യാൻ കഴിയുമോഅതാണ് ഭാവി പ്രതീക്ഷ അത്തരം സാഹചര്യം കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാകില്ല മുൻപ് ഞാൻ പരാജയപ്പെട്ടുവെന്നും ഇത് കൈകാര്യം ചെയ്യാൻ ഞാൻ കഴിവില്ലാത്തവനാണെന്നും കരുതുന്നുവെങ്കിൽ ഭാവിയിൽ ഈ സാഹചര്യത്തിൽ എന്നിൽ നെഗറ്റീവ് വികാരം ഉണ്ടാകും ഞാൻ ആ സന്ദർഭത്തെ ഭയപ്പെടും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ശാരീരികമായ ഉത്തേജനവും പ്രവർത്തനപരതയും അനുഭവപ്പെടുന്നു കലഹത്തിന് പ്രേരണ ഉണ്ടാകുന്നു ഞങ്ങൾ വൈകാരികാവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും പ്രസക്തമാകുന്നു അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ദൃശ്യം കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ യൂണിഫോമിലുള്ള ആളുകളെ കാണുന്നു ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ആജ്ഞകൾ അനുസരിക്കേണ്ട ഉദ്യോഗസ്ഥർ അവർക്കു ജോലിയുമായി ബന്ധപ്പെട്ടു നിറവേറ്റേണ്ട ഉത്തരവാദിത്വങ്ങൾ അത്തരം വികാരങ്ങൾ മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ നിങ്ങളിൽ ഒരു ബൌദ്ധികമായ വിലയിരുത്തൽ പ്രക്രിയ നടക്കുന്നുണ്ട് ഒരു വൈകാരിക പ്രതികരണം അവിടെ ഉണ്ടാകുന്നുണ്ട് അടുത്ത ഭാഗം നോക്കുക ആകാശ നീല നിറത്തിലുള്ള ഷർട്ട് ധരിച്ചിരിക്കുന്ന ഈ മനുഷ്യനെ നോക്കൂ ലാത്തി ചാർജിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുന്ന അവന്റെ ശ്രമങ്ങളെല്ലാം വെറുതെയാകുന്നു അയാൾക്ക് ചുറ്റും പോലീസുകാർ ഉണ്ട് അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു ചെറുപ്പക്കാരനെ ഉപദ്രവിക്കിക്കുന്നതിൽ നിന്നും തടയാൻ ശ്രമിക്കുന്നു ഈ ഒരൊറ്റ വ്യക്തിയ്ക്കെതിരെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ നടത്തുന്ന ലാത്തി ചാർജ് ശരിയല്ല എന്ന തീരുമാനം വിലയിരുത്തളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക് അതിനു കഴിഞ്ഞില്ല തടയാൻ വന്ന ഓഫീസർ വൈകാരിക നിയന്ത്രണമുള്ള ഒരാളാണെന്നും നാം കണ്ടു അത് സന്ദര്ഭത്തിന് ചേരുന്ന പ്രതികരണമായിരുന്നു എന്നാൽ വൈജ്ഞാനിക വൈകാരിക നിയന്ത്രണമായിരുന്നില്ല നാം വൈകാരിക അവസ്ഥകളുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഈ കോഴ്സിന്റെ ഭാഗമായി നമ്മൾ പെർസെപ്ച്വൽ മെക്കാനിസത്തെക്കുറിച്ച് പഠിച്ചു എങ്ങനെ പഠിക്കുന്നു എങ്ങനെ മനപാഠമാക്കുന്നു എങ്ങനെ ഓർമ്മിക്കുന്നു കൂടാതെ എങ്ങനെ വികാരം അത് നമ്മുടെ ധാരണകളിലും ഓർമ്മകകളിലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും മനസ്സിലാക്കി മനുഷ്യന്റെ ഫലപ്രദമായ ഗ്രഹണ പ്രക്രിയകളെക്കുറിച്ചുള്ള അറിവുകളായിരുന്നു ഇവയെല്ലാം